ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ II പാർട്ട് 9 ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ മൊഡ്യൂൾ നമ്പർ 4 ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ II module number 4 Orthographic Projections II ആണ് പ്രത്യേകിച്ചും ഇതിൽ പ്ളേനുകളുടെ പ്രൊജക്ഷനെ പറ്റി കാണാം നമ്മൾ വ്യത്യസ്ത ആകൃതികൾ പ്രത്യേകിച്ച് ത്രികോണം പെന്റഗൺ സർക്കിൾ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നോക്കാം അവ ലംബ പ്ലെയിനിൽ അല്ലെങ്കിൽ തിരശ്ചീന പ്ലെയിനിൽ റിഓറിയന്റ ചെയ്യുന്നു എങ്കിൽ അവ ഏതുതരം പ്രൊജക്ഷനുകൾ ചെയ്യുന്നു എന്നതിനെ പറ്റി കാണാം ഇവിടെ ഒരു ഉദാഹരണം 4 നമ്മൾ ഒരു സർക്കിൾ നോക്കുന്നു പ്രശ്ന പ്രസ്താവന എന്താണെന്നു വെച്ചാൽ 50 മില്ലീമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം തിരശ്ചീന തലത്തിലേക്ക് AC വ്യാസത്തിന്റെ A അറ്റത്ത് അത് 30 ഡിഗ്രി ചെരിഞ്ഞ് വിശ്രമിക്കുന്നു

അതിനാൽ നമുക്ക് ഒരു സർക്കിൾ ലഭിച്ചുകഴിഞ്ഞാൽ വ്യത്യസ്ത വ്യാസങ്ങൾ നിർമ്മിക്കാൻ കഴിയും വ്യാസങ്ങളിലൊന്ന് ഈ AC യാണ് മറ്റൊന്ന് നമുക്ക് BD ആയി നിർമ്മിക്കാൻ കഴിയും ഈ AC വ്യാസം തിരശ്ചീന തലത്തിൽ 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നു അതിനാൽ ആദ്യമായി നമ്മൾ ഒരു വൃത്തമുണ്ടാക്കണം അതിനെ തിരശ്ചീന തലത്തിൽ സ്ഥാപിക്കണം ഒരു വ്യാസം 30 ഡിഗ്രി ഉണ്ടാക്കുന്നു ലംബ തലത്തിൽ നമുക്ക് അത് ദൃശ്യവൽക്കരിക്കാനാകും അത് ചെയ്തുകഴിഞ്ഞാൽ ടോപ് വ്യൂ അർത്ഥമാക്കുന്നത് നമ്മൾ എന്താണോ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ലംബ തലത്തിലേക്ക് 45 ഡിഗ്രി ചെരിഞ്ഞതാണ് എന്നാണ് അതിനർത്ഥം ലംബ തലത്തിൽ 45 ഡിഗ്രി ആംഗിൾ നിർമ്മിക്കാൻ നമ്മൾ വീണ്ടും ആ തലം തിരിക്കും അതിനാൽ തുടക്കം മുതൽ 45 ഡിഗ്രി ഉപയോഗിച്ച് വിപരീത രീതിയിൽ ചെയ്യുക തുടർന്ന് 30 ഡിഗ്രി തിരിക്കുക ഒടുവിൽ ശരിയായ ചിത്രം ലഭിക്കും അതിനാൽ നമുക്ക് ഒരു സർക്കിൾ നിർമ്മിക്കാൻ ആരംഭിക്കാം ഇവിടെ ac എന്നത് വ്യാസങ്ങളിൽ ഒന്നാണ് മറ്റൊന്ന് bd ആണ് ഈ തിരശ്ചീന തലത്തിൽ ഈ ac വിശ്രമിക്കുന്നു ഇതാണ് ടോപ് വ്യൂ ഇവിടെ നിന്ന് പൂർണ്ണമായ സർക്കിൾ ദൃശ്യമാണ് ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾ ഈ ഭാഗത്തുനിന്നാണ് നോക്കുന്നതെങ്കിൽ ഈ ac ഭാഗം മാത്രമേ കാണാൻ കഴിയു bd മാപ്പ് ചെയ്തിരിക്കുന്നു അതിനാൽ ആ പോയിന്റുകൾ a c' ബാക്കി b' d' എന്നിവയാണ് ഇപ്പോൾ തിരശ്ചീന തലത്തിൽ 30 ഡിഗ്രി ഒരു പ്രത്യേക ആംഗിൾ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു തിരശ്ചീന തലത്തിലേക്ക് 30 ഡിഗ്രി ചെരിഞ്ഞ AC പോയിന്റ് നമ്മൾ എങ്ങനെ കാണും നമ്മൾ ഒരു പോയിന്റ് ഉയർത്തിയില്ലെങ്കിൽ ഇത് ac എന്നിവ ഇപ്പോഴും തിരശ്ചീന തലത്തിലാണ് ഈ c പോയിന്റ് ലംബ ദിശയിലേക്ക് ഉയർത്തി അതിനെ ലംബ തലത്തിൽ പ്രൊജക്റ്റ് ചെയ്യും അതിനാൽ ഇതാണ് ഇവിടെ ലംബ തലം ഒരു പോയിന്റ് ഭൂനിരപ്പിൽ സമാനമായി തുടരുന്നു c പോയിന്റ് c' ലേക്ക് പോകുന്നു ഇപ്പോൾ ആ വ്യാസം യോജിപ്പിക്കാം അതിനാൽ a'c' നമ്മൾ പുനസ്ഥാപിക്കും BD പോയിൻറുകൾ മിഡ്പോയിന്റുകളിലാണ് ഈ മിഡ്പോയിന്റുകൾ നമ്മൾ കണ്ടെത്തും കൂടാതെ ac' 30 ഡിഗ്രി ഉണ്ടാക്കുന്നു അത് അറിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കണം ഈ രേഖകൾ പ്രൊജക്റ്റ് ചെയ്യുക a മുതൽ a വരെ c മുതൽ c വരെ അങ്ങിനെ b d എന്നിവയിലേക്കുള്ള എല്ലാം ചെയ്യണം ഇപ്പോൾ aa1 ലേക്ക് മാപ്പ് ചെയ്തു dd1 ലേക്ക് മാപ്പ് ചെയ്തു cc1 ലേക്ക് മാപ്പ് ചെയ്തു b b1 ലേക്ക് മാപ്പ് ചെയ്തു അതിനാൽ ഇനി ഇത് 30 ഡിഗ്രി ഉയർത്തുമ്പോൾ സർക്കിൾ ഒരു എലിപ്സ് പോലെ കാണപ്പെടുന്നു ഈ സർക്കിൾ ഞാൻ അതിനെ 30 ഡിഗ്രി ഉയർത്തുന്നുവെങ്കിൽ ഈ മുൻഭാഗത്തെ വൃത്തം എലിപ്സ് ആകൃതിയിലുള്ള പോലെയാണ് അതിനാൽ ഇതാണ് എലിപ്സ് ഷീറ്റിലെ എലിപ്സ് നമ്മൾ കണ്ടെത്തുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ ഈ പ്ലെയിൻ 45 ഡിഗ്രി തിരിക്കണം അങ്ങനെ VP യിലേക്ക് ചെരിഞ്ഞ് ഇരിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള എലിപ്സ് ലഭിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ എലിപ്സ് പൂർണ്ണമായും ആ ദിശയിലേക്ക് തിരിക്കാൻ പോകുന്നു അതിനാൽ ലംബ തലത്തിൽ ടോപ് വ്യൂവിൽ നമുക്ക് ആ ഭ്രമണം കാണാൻ കഴിയും ഉദാഹരണത്തിന് ഈ a പോയിന്റ് 45 ഡിഗ്രി തിരിക്കുന്നു അതിനാൽ ഇത് ആ പ്ലെയിനിലൂടെ 45 ഡിഗ്രിയിൽ പോകുന്നു ഏത് പ്ലെയിനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ടോപ് വ്യൂവിൽ നമ്മൾ ചില ആംഗിൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൻറെ വ്യാസം ലംബ തലത്തിൽ 45 ഡിഗ്രി ആംഗിളിൽ ആയിരിക്കണം ഇതാണ് ടോപ്പ് വ്യൂ അതിനാൽ ലംബ തലത്തിലേക്ക് 45 ഡിഗ്രി ചെരിവുള്ള ടോപ്പ് വ്യൂ ഇതാണ് അതിനാൽ ഈ മുഴുവൻ ac ലൈനും 45 ഡിഗ്രി ഉണ്ടാക്കും അങ്ങിനെ 45 ഡിഗ്രി രേഖ ലഭിക്കുന്ന തരത്തിൽ നമ്മൾ അത് തിരിക്കുന്നു അതിനനുസരിച്ച് b 1 പോയിൻറുകൾ d 1 പോയിൻറുകൾ എന്നിവയും മാപ്പുചെയ്തു അപ്പോൾ നമുക്ക് ഈ പ്രൊജക്ഷനുകൾ ലഭിക്കും ഈ a1 b1 c1 d1 ലഭിച്ചുകഴിഞ്ഞാൽ ഈ ac ലൈൻ ഇവിടെ നിന്ന് തിരിക്കുന്ന രീതി 45 ഡിഗ്രി ആക്കാൻ വേണ്ടി ഉള്ളതായിരിക്കും അതിനാൽ പ്രൊജക്ഷനുകൾ എല്ലായ്പ്പോഴും നമുക്ക് a' b1 c d നൽകുന്നു അതിലൂടെ ഒരു എലിപ്സ് ഉണ്ടാക്കുന്ന ഒരു ഫ്രീഹാൻഡ് സ്കെച്ച് വരയ്ക്കണം ഇപ്പോൾ നമുക്ക് ഒരു പുതിയ ഉദാഹരണം നോക്കാം ഇവിടെ 30 മില്ലീമീറ്റർ വശങ്ങളുള്ള ഒരു സാധാരണ പെന്റഗൺ ഉണ്ട് ഒരു വശത്ത് 45 ഡിഗ്രി XY അക്ഷത്തിലേക്ക് ചരിഞ്ഞിരിക്കുന്നു ഒരു പ്ലെയിനിന്റെ ടോപ് വ്യൂ ആണ് ഇത് ഫ്രണ്ട് വ്യൂ XY യിലേക്ക് 45 ഡിഗ്രി ചെരിഞ്ഞ ഒരു രേഖ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ രൂപം നിർണ്ണയിക്കുക അതിനാൽ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ ഒന്നും അറിയില്ല എന്നാൽ ചില വസ്തുക്കളുടെ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും നമുക്കറിയാം ഇവ രണ്ടും നമുക്കറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് യഥാർത്ഥ രൂപം എന്താണെന്ന് നിർണ്ണയിക്കാൻ മാർഗമുണ്ടോ അതിനാൽ അത്തരം പ്രശ്നങ്ങൾ ചെയ്യുന്നതിന് ഈ പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും ലളിതമാക്കുന്ന ഓക്സിലറി പ്ലെയിൻ രീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം

അതിനാൽ ഈ ഓക്സിലറി പ്ളേനുകളുടെ കാര്യത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും അറിയാവുന്നത് ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും ആണ് നമുക്ക് അറിയാത്തത് യഥാർത്ഥ രൂപമാണ് ഫ്രണ്ട് വ്യൂവിൽ ഇത് ഒരു സാധാരണ പെന്റഗൺ പോലെ കാണപ്പെടാം പക്ഷേ യഥാർത്ഥ ആകാരം മറ്റൊന്നാണ് ഇത് ഒരു യഥാർത്ഥ പെന്റഗൺ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഓക്സിലറി പ്ലെയിൻ എന്ന ഒരു പുതിയ കൺസെപ്റ്റ് പഠിക്കാം അതിനാൽ ഫ്രണ്ട് വ്യൂ ടോപ് വ്യൂ എന്നിവ മാത്രം അറിയാവുന്ന വളരെ ശക്തമായ ഒരു രീതിയാണ് ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് ഇവിടെ എന്താണ് കണ്ടെത്തേണ്ടത് യഥാർത്ഥ രൂപം അതിനാൽ നമ്മൾ കുറച്ച് ഘട്ടങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഈ യഥാർത്ഥ രൂപം ലഭിക്കും ഒന്നാമതായി ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നൽകിയിട്ടുള്ളതെന്തും വരയ്ക്കുക തന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്നിവ വരയ്ക്കുക തുടർന്ന് എല്ലാ രേഖകൾക്കിടയിലും നമുക്ക് വ്യത്യസ്തമായ വ്യൂവും ടോപ് വ്യൂവും കാണാൻ കഴിയും നമ്മൾ ഒന്ന് തിരഞ്ഞെടുക്കണം യഥാർത്ഥ നീളം കാണിക്കുന്ന ഒരു രേഖ തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് 30 മില്ലീമീറ്റർ വശമാണ് യഥാർത്ഥ നീളം എന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ അത്തരം രേഖ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കാരണം ഇത് ഒരു യഥാർത്ഥ രൂപമാണ് മറ്റൊരു വ്യൂ XY അക്ഷത്തിന് സമാന്തരമായിരിക്കണം നമുക്ക് ഈ യഥാർത്ഥ രൂപം ഉള്ളപ്പോഴെല്ലാം മറ്റ് വ്യൂകൾ എല്ലായ്പ്പോഴും XY തലത്തിന് സമാന്തരമായിരിക്കും അതിനുശേഷം നമ്മൾ ഒരു പുതിയ അച്ചുതണ്ട് ഒരു പുതിയ X1 Y1 അക്ഷം അല്ലെങ്കിൽ ഈ യഥാർത്ഥ രേഖയ്ക്ക് യഥാർത്ഥ നീളത്തിന് ലംബമായി ഒരു തലം നിർമ്മിക്കും അതിനാൽ ഒന്നാമതായി ഈ ഫ്രണ്ട് വ്യൂ ടോപ് വ്യൂ എന്നിവ വരയ്ക്കേണ്ടതുണ്ട് എന്നിട്ട് ആ രേഖകൾക്കിടയിൽ യഥാർത്ഥ നീളം കാണിക്കുന്ന ഒരു രേഖ തിരഞ്ഞെടുക്കുക അതായത് XY തലം സമാന്തരമായിരിക്കേണ്ട മറ്റ് വ്യൂ അത് ചെയ്തുകഴിഞ്ഞാൽ യഥാർത്ഥ രേഖയുടെ അല്ലെങ്കിൽ യഥാർത്ഥ നീളത്തിന്റെ ലംബമായി ഒരു X1I1 ലൈൻ അല്ലെങ്കിൽ തലം കൂടി വരയ്ക്കുക ഇപ്പോൾ ലൈനുകൾ എല്ലാം ഈ പുതിയ പ്ളേനിലേക്കു പ്രൊജക്റ്റ് ചെയുക അതിനെ നമുക്ക് ഓക്സിലറി പ്ലെയിൻ X1 Y1 എന്ന് വിളിക്കാം ഇപ്പോൾ ഈ പ്രൊജക്ഷന് സമാന്തരമായി X2Y2 വരയ്ക്കുക ഈ രേഖയെല്ലാം X1Y1 ലേക്ക് വരയ്ക്കുക അപ്പോൾ നമുക്ക് ഒരു ലൈൻ വ്യൂ ലഭിക്കും ഇപ്പോൾ ഈ ലൈൻ വ്യൂവിന് സമാന്തരമായി മറ്റൊരു XY X2 Y2 പ്ലെയിൻ വരയ്ക്കുക ഇപ്പോൾ നമുക്ക് പുതിയ വ്യൂ ലഭിച്ചു ഇപ്പോൾ നമുക്ക് ലഭിച്ച പുതിയ വ്യൂ ആണ് യഥാർത്ഥ രൂപം ഉദാഹരണത്തിന് ഈ വശത്ത് 30 മില്ലീമീറ്റർ വശങ്ങളുള്ള ഒരു സാധാരണ പെന്റഗൺ വരയ്ക്കുക അതിന്റെ ഒരു വശത്ത് 45 ഡിഗ്രി XY അക്ഷത്തിലേക്ക് ചരിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒന്നാമതായി നമ്മൾ 30 മില്ലീമീറ്റർ വശമുള്ള ഒരു സാധാരണ പെന്റഗൺ വരയ്ക്കുന്നു അതിന്റെ 30 മില്ലീമീറ്റർ വശത്ത് നൽകിയിരിക്കുന്ന വ്യൂവുകളിൽ ഒന്നാണിത് ഒരു വശത്ത് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത് ഇതാണ് 30 ഡിഗ്രി ആംഗിൾ നമുക്ക് 30 മില്ലീമീറ്റർ വശങ്ങളുള്ള ഒരു സാധാരണ പെന്റഗൺ ഉണ്ട് അതിന്റെ ഒരു വശം 30 ഡിഗ്രി X ആക്സിസ് XY ആക്സിസിലേക്ക് ചരിഞ്ഞിരിക്കുന്നു അതിനാൽ ഒന്നാമതായി abcd പോയിന്റുകളുള്ള ഒരു സാധാരണ പെന്റഗൺ നമ്മൾ നിർമ്മിക്കുന്നു ഇതാണ് ടോപ്പ് വ്യൂ യഥാർത്ഥ രൂപം എന്താണ് നമുക്കറിയില്ല എന്നാൽ ടോപ്പ് വ്യൂ ലെവലിൽ നോക്കുമ്പോൾ ഇത് 30 മില്ലീമീറ്റർ വശങ്ങളുള്ള ഒരു സാധാരണ പെന്റഗൺ ആണ് ഒരുവശം XY ലേക്ക് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ ഈ രൂപം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഒരു രേഖയായി നൽകാം അതിനാൽ ഇതാണ് ലൈൻ ഇത് ഒരു രേഖയാണ് അത് പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ XY പ്ലെയിനിൽ 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കും അതിനാൽ നമ്മുടെ വിവിധ ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും ഓക്സിലറി പ്ലെയ്ൻ നിർമ്മിക്കുന്നതിന് ഈ രേഖ തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും കാരണം അതാണ് നമുക്ക് ലഭിക്കുന്ന യഥാർത്ഥ ലൈൻ ഈ രേഖയിൽ a b e c d എന്നിവ അടയാളപ്പെടുത്തുക ഇപ്പോൾ ഈ യഥാർത്ഥ രേഖയ്ക്ക് സമാന്തരമായി നമ്മൾ X1 Y1 വരയ്ക്കണം ഈ യഥാർത്ഥ ലൈൻ ഇപ്പോൾ അറിയാവുന്നതിനാൽ ഈ രേഖകളെല്ലാം ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുക ഇത് ഒരു യഥാർത്ഥ രേഖയായതിനാൽ X ആക്സിസ് XY അക്ഷവുമായി ബന്ധപ്പെട്ട പോയിന്റ് a ആ നീളം എന്തുതന്നെയായാലും നമുക്ക് അതിനെ ഈ ഓക്സിലറി പ്ലെയിൻ വ്യൂവിലേക്കു മാറ്റും അതിനാൽ a മുതൽ X ആക്സിസ് വരെ ഉള്ള ദൂരവും X1 അക്ഷത്തിൽ നിന്നും ഉള്ള ദൂരവും തുല്യമാണ് അങ്ങനെയാണ് നമ്മൾ ഈ ദൈർഘ്യം കൈമാറുന്നത് നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ രേഖകൾ ലഭിക്കും ഇപ്പോൾ X1 പോയിന്റിൽ നിന്ന് XY ആക്സിസിലെ oa പോയിന്റിലേക്കും a1 പോയിന്റിലേക്കുള്ള എല്ലാ വഴികളും ഒന്നായിത്തീരുന്നു XY അക്ഷത്തിൽ നിന്ന് ഇതാണ് b യിലേക്കുള്ള ദൂരം നമുക്ക് ഈ ദൂരം ഈ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തേക്ക് മാറ്റം അതിനായി ചുവപ്പു നിറം ഉപയോഗിക്കാം നമ്മൾ ഈ നീളം XY അക്ഷത്തിൽ നിന്ന് ആ രേഖയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും അത് X1 അക്ഷത്തിൽ നിന്ന് b1 വരെയാണ് ഇതിനകം തന്നെ b1 പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് b1 നു സമാനമായി a1 തിരിച്ചറിയാൻ നമുക്ക് ആ നീളം ഉപയോഗിക്കാം X ആക്സിസിൽ നിന്ന് e പോയിന്റിലേക്കുള്ള നീളം അതേ നീളം പ്രൊജക്ട് ചെയ്ത് e കണ്ടെത്താം അവിടെ നിന്ന് d ലേക്ക് അത് വഴി d1 കണ്ടുപിടിക്കാം അതുപോലെ XY തലം മുതൽ c പോയിന്റ് വരെ നമുക്ക് ആ ഓക്സിലറി പ്ലെയിനിലേക്കു മാറ്റാം ab1c1d1e എന്നീ പോയിന്റുകൾ ലഭിച്ചുകഴിഞ്ഞാൽ ആ വസ്തുവിന്റെ യഥാർത്ഥ രൂപം ലഭിക്കുന്നതിന് നമുക്ക് അതിനെ യോജിപ്പിച്ചാൽ മതിയാകും ഓക്സിലറി പ്ലെയിൻ രീതിയിൽ കൂടി ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും അറിയുമ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് ട്രൂ ലൈൻ നൽകുന്നു ടോപ് വ്യൂവിൽ നിന്ന് നമുക്ക് സാധാരണ ആകൃതിയിലുള്ള ഒരു പെന്റഗൺ ലഭിക്കുന്നു ഇവ അറിഞ്ഞുകഴിഞ്ഞാൽ യഥാർത്ഥ രേഖയ്ക്ക് സമാന്തരമായി നമ്മൾ ഒരു ഓക്സിലറി പ്ലെയിൻ X1 Y1 വരയ്ക്കും ഈ ഫ്രണ്ട് വ്യൂ വിവരങ്ങൾ എന്തായാലും ഇവയെല്ലാം a b e എന്നിവയിൽ പ്രൊജക്റ്റ് ചെയ്യും X ആക്സിസ് XY ആക്സിസ് മുതൽ മുകളിൽ നാം കാണുന്ന ദൂരം എന്തുതന്നെയായാലും ആ ആകൃതി നമ്മൾ യഥാർത്ഥ രൂപം നിർമ്മിക്കുന്നതിന് ഓക്സിലറി പ്ലെയിൻ മുതൽ അടയാളപ്പെടുത്തുന്നു ഓക്സിലറി പ്ലെയിൻ രീതി ഉപയോഗിച്ച് യഥാർത്ഥ രൂപങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത് അതിനാൽ അടുത്ത ക്ലാസ്സിൽ ഈ യഥാർത്ഥ രൂപങ്ങളെയും ഓക്സിലറി പ്ലെയിൻ രീതികളെയും കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം തുടർന്ന് സോളിഡുകളുടെ പ്രൊജക്ഷൻ ആരംഭിക്കുകയും ചെയ്യും